ഇപ്പോൾ കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ MOS ട്രാൻസിസ്റ്ററിന്റെ സ്മോൾ സിഗ്നൽ ഔട്ട്പുട്ട് കണ്ടക്റ്റൻസ് g d s ന്റെ സ്വാധീനം നമ്മൾ പരിശോധിക്കും നമുക്ക് ഉണ്ടായിരുന്ന കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഘടനയാണിത് നമ്മുടെ മുമ്പത്തെ ഉദാഹരണത്തിൽ 100 കിലോ ഓം സോഴ്സ് റെസിസ്റ്റൻസുണ്ട് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ വാല്യൂകൾ ആണ് ഞാൻ എടുക്കുന്നത് നമുക്ക് R s നേക്കാൾ വളരെ കൂടുതലുള്ള ഈ ബയസ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിനാൽ R s ഉം ഈ ബയസ് റെസിസ്റ്ററുകളും തമ്മിൽ വോൾട്ടേജ് വിഭജനം ഉണ്ടാകില്ല ഈ എല്ലാ V sഉം ഗേറ്റിനും സോഴ്സിനും കുറുകെ ദൃശ്യമാകുന്നു ബയസിങിനായുള്ള ഡ്രെയിൻ ഭാഗത്ത് നമുക്ക് RD ആവശ്യമാണ് നമ്മൾ 100 കിലോ ഓം ലോഡ് റെസിസ്റ്റൻസ് ഉപയോഗിച്ചു അതിനാൽ 23 വോൾട്ട് സപ്ലയിൽ നിന്ന് 20 വോൾട്ട് കുറയ്ക്കുകയും MOS ട്രാൻസിസ്റ്ററിലുടനീളം 3 വോൾട്ട് അവശേഷിക്കുകയും ചെയ്യുന്നു ലോഡ് റെസിസ്റ്റൻസ് 100 കിലോ ഓം ആയി നിർദ്ദേശിക്കുന്നു അതിനാൽ ഈ കേസിലെ ഓപ്പറേറ്റിംഗ് പോയിൻറ് ഇത് ഇതിനകം തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾ വിശദാംശങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ദയവായി ആ പാഠത്തിലേക്ക് തിരികെ പോയി അത് വീണ്ടും മനസിലാക്കുക ഇത് അധിക പരിശീലനമായിരിക്കും അതിനാൽ 200 മൈക്രോ ആമ്പിയറുകളുടെ ഡ്രെയിൻ കറന്റുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് പോയിന്റ് മൂന്ന് വോൾട്ടുള്ള V G S ഉം മൂന്ന് വോൾട്ടുകളുടെ V D S ഉം ആണ് ഈ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ സ്മോൾ സിഗ്നൽ ട്രാൻസ് കണ്ടക്റ്റൻസ് g m 200 മൈക്രോ സീമെൻസാണ് ഇതാണ് നമ്മൾ കണക്കാക്കിയത് അതിനാൽ സാച്ചുറേഷൻ മേഖലയിലെ ഡ്രെയിൻ കറന്റ് എക്സ്പ്രഷനിൽ ഉണ്ടാകുന്ന ചാനൽ ലെങ്ത് മോഡുലേഷന്റെ അല്ലെങ്കിൽ എക്സ്ട്രാ ഫാക്ടർ 1 ƛ V D S ന്റെ എഫെക്ട് എന്താണെന്നതാണ് ഇപ്പോൾ ചോദ്യം ഇപ്പോൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ നമുക്ക് ചാനൽ ലെങ്ത് മോഡുലേഷൻ ഉണ്ടായിരുന്നു എന്നതിനർത്ഥം ഓപ്പറേറ്റിംഗ് പോയിന്റ് കറന്റും ശരിയായി മാറുന്നു എന്നാണ് കാരണം ഇവിടെ നമുക്ക് മൂന്ന് വോൾട്ടുകളുടെ V G S ലഭിക്കുന്നു അത് ഒട്ടും മാറുന്നില്ല കാരണം ഗേറ്റ് കറന്റ് ഇപ്പോഴും പൂജ്യമാണ് എന്നാൽ മൂന്ന് വോൾട്ടുകളുടെ ഒരു ഗേറ്റ് വോൾട്ടേജിന് കറൻറ് ഇരുനൂറ് മൈക്രോ ആമ്പിയറാവുന്നതിന് പകരം അത് VDS നെയും ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് ഇത് കണക്കാക്കാനാകും എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാധാരണയായി ലാംഡ V D S ന്റെ എഫെക്ട് കണക്കിലെടുക്കാതെ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണക്കുകൂട്ടലുകൾ നടത്തുന്നു അതിനാൽ ID 200 മൈക്രോ ആമ്പിയറുകളിൽ തുടരുമെന്ന് നമ്മൾ അനുമാനിക്കും അതിനാൽ V D S 3 വോൾട്ടിലും തുടരും അതുപോലെ gm 200 മൈക്രോ സീമെൻസിലും നിലനിൽക്കും അതിനാൽ ഇത് കാരണം ഓപ്പറേറ്റിംഗ് പോയിന്റിലെ മാറ്റങ്ങൾ നമ്മൾ അവഗണിക്കുന്നു പക്ഷേ സമാന ആംപ്ലിഫയറിന്റെ ഈ സ്മോൾ സിഗ്നൽ ചിത്രം നമ്മുടേലുണ്ട് C1 C2 എന്നിവ ആവശ്യത്തിന് വലുതാണെങ്കിൽ അവ ആവശ്യത്തിന് വലുതായി കണക്കാക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ നമുക്കറിയാം സിഗ്നൽ ഫ്രീക്വൻസിയിൽ അവ ഷോർട്ട് ആയി പെരുമാറുന്നു അതിനാൽ ഇപ്പോൾ അവ ഷോർട്ടായി പെരുമാറുകയും Rs നെ അപേക്ഷിച്ച് R2 ഉം R ഉം വളരെ വലുതുമാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ എഴുതട്ടെ C 1 C 2 വളരെ വലുതാണ് ഞാൻ വാല്യൂ പറയുന്നില്ല പക്ഷേ അത് എങ്ങനെ കണക്കാക്കാമെന്ന് നമുക്കറിയാം അതുപോലെ R 1 R 2 എന്നിവ R s നേക്കാൾ വളരെ കൂടുതലാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പത്തെ കണക്കുകൂട്ടൽ അനുസരിച്ച് സ്മോൾ സിഗ്നൽ ഗെയിൻ V നോട്ട് V s എന്നത് g m R D ∥ R L ആണെന്ന് നമുക്കറിയാം ഇപ്പോൾ MOS ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിനിലും സോഴ്സിലും ഉടനീളമുള്ള ചാനൽ ലെങ്ത് മോഡുലേഷന്റെ എഫെക്ട് എന്താണ് നമുക്ക് ഒരു സ്മോൾ സിഗ്നൽ കണ്ടക്റ്റൻസ് gd s ഉണ്ട് അതിനാൽ നമുക്ക് ഈ അധിക കണ്ടക്ടൻസ് gd s ഉണ്ട് g d s അടിസ്ഥാനപരമായി ലാംഡ I D യാണെന്ന് നമുക്കറിയാം ഞാൻ ലാംഡയെ പോയിന്റ് പൂജ്യം അഞ്ച് വോൾട്ട് ഇൻവേഴ്സ് ആയി കണക്കാക്കുന്നുവെങ്കിൽ ഈ g d s പത്ത് മൈക്രോ സീമെൻസായി മാറുന്നു അല്ലെങ്കിൽ 100 കിലോ ഓമുകളുടെ റെസിപ്രോക്കലാണ് അതിനാൽ ഡ്രെയിൻ സോഴ്സിനു കുറുകേ ദൃശ്യമാകുന്ന റെസിസ്റ്റൻസ് 100 കിലോ ഓം ആണ് ഇപ്പോൾ ഇതിന്റെ എഫെക്ട് എന്താണ് ഇത് കാണാൻ വളരെ എളുപ്പമാണ് ഇത് RD R L എന്നിവയ്ക്ക് സമാന്തരമായി ദൃശ്യമാകുന്നു സ്മോൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ചിത്രത്തിൽ ഡ്രെയിനിനും സോഴ്സിനും കുറുകെ നമുക്ക് RD ഉണ്ട് ഡ്രെയിനിലും സോഴ്സിനും കുറുകെ RL ഉണ്ട് ഇപ്പോൾ ഈ rds അല്ലെങ്കിൽ gds ഡ്രെയിനിലും സോഴ്സിനും കുറുകേ ദൃശ്യമാകുന്നു g d s കണ്ടക്ടൻസിനൊപ്പവും r d s റെസിസ്റ്റൻസിനൊപ്പവുമാണ് ഉപയോഗിക്കുന്നത് അതിനാൽ r d s 100 കിലോ ഓം ആണ് ഇത് അടിസ്ഥാനപരമായി g d sന്റെ റെസിപ്രോക്കൽ ആണ് അതിനാൽ എന്ത് സംഭവിക്കുന്നു ഈ മൂന്ന് റെസിസ്റ്ററുകളും സമാന്തരമാണ് കറൻറ് g m V G S ഈ റെസിസ്റ്ററുകളുടെ സമാന്തര സംയോജനത്തിലേക്ക് പോകുന്നു അതിനാൽ കറന്റ് ഗുണനം R D S പാരലൽ R D പാരലൽ R L ഗുണനം V G S ന്റെ പൊളാരിറ്റി കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് g m ആയിരിക്കും അല്ലെങ്കിൽ ഗെയിൻ V naught ബൈ V G S എന്നത് മൈനസ് g m R D S പാരലൽ R D പാരലൽ R L ആയിരിക്കും ഇപ്പോൾ R D R L എന്നിവയ്ക്ക് സമാന്തരമായി നമുക്ക് ഒരു അധിക റെസിസ്റ്റൻസ് ഉള്ളതിനാൽ ഇത് ഗെയിൻ കുറയ്ക്കുകയെയുള്ളൂ ഇവന്റുകളുടെ ക്രമം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമ്മൾ g m R L കണ്ടുപിടിക്കുന്നിടത്ത് നിന്നാണ് തുടങ്ങിയത് കൂടാതെ g mന്റെ മൂല്യം 200 മൈക്രോ സീമെൻസും R L 100 കിലോ ഓംസ് ആയതിനാൽ ഈ മൂല്യം 20 ആയിരിക്കണം മാത്രമല്ല നമുക്ക് ശരിക്കും ലഭിക്കുന്നത് g m R D പാരലൽ R L ആണ് കാരണം R D അനിവാര്യമാണ് കൂടാതെ R Dയെ ഉയർത്താൻ നമുക്ക് ശ്രമിക്കാം പക്ഷേ അതിന് വലിയ സപ്ലൈ വോൾട്ടേജ് ആവശ്യമാണ് R L ന് തുല്യമായി R D യെ 100 കിലോ ഓം ആയി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഗെയിൻ മുമ്പുണ്ടായിരുന്നതിന്റെ പകുതിയായി മാറും അതിനാൽ നമുക്ക് മൈനസ് 10 മാത്രമേ ലഭിക്കൂ ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് ഇതു മാത്രമല്ല നമുക്ക് r d s സമാന്തരമായുണ്ട് ഈ കേസിൽ യാദൃശ്ചികമായി rds ഉം 100 കിലോ ഓം ആണ് അതിനാൽ g m r d s പാരലൽ R D പാരലൽ R L എന്നത് മൈനസ് ആറേ പോയിന്റ് ഏഴ് എന്നാകും ആറേ പോയിന്റ് ആറേ ഏഴ് ആയി മാറും അതിനാൽ കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ അല്ലെങ്കിൽ പൊതുവെ ഏതെങ്കിലും ആംപ്ലിഫയറിന്റെ ഗെയിൻ കുറയ്ക്കുക എന്നതാണ് rds ന്റെ എഫെക്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം rds ഇവയ്ക്ക് സമാന്തരമായി ദൃശ്യമാകുന്നു അതിനാൽ നിങ്ങൾ RL നെയും RD യെയും ഇൻഫിനിറ്റി ആയി എടുത്താലും എങ്ങനെയെങ്കിലും ചില ബയസിങ് നടത്താനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തുക അവിടെ ലോഡ് റെസിസ്റ്റൻസ് ഇല്ല ഗെയിനിന്റെ പരമാവധി മൂല്യം gmrds ആയിരിക്കും കാരണം ഈ V നോട്ട് ബൈ V s എന്നത് മൈനസ് g m R D പാരലൽ R L പാരലൽ rds ആണ് ഞാൻ അതിന്റെ മാഗ്നിറ്റൂഡ് മാത്രം കണക്കാക്കിയാൽ ഇത് പ്ലസ് ആയി മാറുന്നു മാത്രവുമല്ല ഇത് gmrds നേക്കാൾ കുറവായിരിക്കുമെന്ന് നമ്മൾക്കറിയാം അതിനാൽ ഈ gm rds രണ്ടും ട്രാൻസിസ്റ്ററിന്റെ പാരാമീറ്ററുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ട്രാൻസിസ്റ്റർ ലഭിച്ചുകഴിഞ്ഞാൽ അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് നിങ്ങൾ തീരുമാനിക്കുക ഈ നമ്പർ ഫിക്സ് ആയിരിക്കണം ഒരൊറ്റ ട്രാൻസിസ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഗെയിൻ ഉണ്ടാക്കാമെന്നതിന് മാക്സിമം പരിധിയുണ്ടെന്ന് ഇത് നിങ്ങളോട് പറയുന്നു ഈ ഗെയിൻ നമ്പർ വലുതോ ചെറുതോ ആകാം പക്ഷേ ലാംഡയുടെ മൂല്യവും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓപ്പറേറ്റിംഗ് പോയിന്റ് കറന്റും അനുസരിച്ച് ഇതിനൊരു പരിധിയുണ്ട് ഈ പരിധിക്കായി നിങ്ങൾക്ക് വലുതോ ചെറുതോ ആയ സംഖ്യ ഉണ്ടായിരിക്കാം പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ടാകും അതിനാൽ R D ഇൻഫിനിറ്റിയിലേക്ക് നീങ്ങുന്ന ബയസിങിന്റെ മാന്ത്രിക മാർഗ്ഗങ്ങൾ നിങ്ങൾ കണ്ടെത്തിയാലും നിങ്ങൾക്ക് ലോഡ് റെസിസ്റ്റൻസ് ഇല്ല അതിനാൽ ഒരൊറ്റ ട്രാൻസിസ്റ്ററിൽ നിന്നു നിങ്ങൾക്ക് ഗെയിൻ ഇൻഫിനിറ്റി നേടാൻ കഴിയില്ല ഔട്ട്പുട്ട് കണ്ടക്റ്റൻസ് g d sഉം അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് r d sഉം ഉൾപ്പെടെയുള്ള MOS ട്രാൻസിസ്റ്ററിന്റെ സ്മോൾ സിഗ്നൽ ചിത്രം എടുത്ത് നോക്കിയാൽ ഇത് വ്യക്തമാണ് ഇപ്പോൾ ഇതാണ് gm VGS ഗേറ്റ് സോഴ്സ് ഡ്രെയിൻ എന്നിവ എവിടെയും അധിക ഘടകങ്ങൾ പ്രത്യക്ഷപ്പെടാതെ എങ്ങനെയെങ്കിലും നമുക്ക് MOS ട്രാൻസിസ്റ്ററിൽ ശരിയായ ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ സ്മോൾ സിഗ്നലിൽ ഉള്ള എല്ലാ സർക്യൂട്ടുകളും ഇതാണ് ഇത് എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല എന്നാൽ ഇത് നമ്മൾ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമുക്കുള്ള സർക്യൂട്ട് ആയതിനാൽ ഇവിടെയുള്ള കറൻറ് gm VGS ആണ് ഇതെല്ലാം കണ്ടക്ടൻസ് gd s ലേക്ക് പോകുന്നു അതിനാൽ ഈ വോൾട്ടേജ് g m g d s V G S ആയിരിക്കും ഇത് g m r d s V G Sനു തുല്യമാണ് ഇത് നമുക്ക് പരമാവധി ലഭിക്കാൻ പോകുന്ന ഗെയിൻ അതിനാൽ ഈ gmrds സംഖ്യ വളരെ പ്രധാനപ്പെട്ട സംഖ്യയാണ് ഇതാണ് ഒരു ട്രാൻസിസ്റ്ററിന്റെ ഇൻഹെറന്റ് ഗെയിൻ ലിമിറ്റ് ഇത് ഒരു നിശ്ചിത സംഖ്യയല്ല ഇതും ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ അവതരിപ്പിച്ച പാഠത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊയഫിഷ്യന്റ് ലാംഡ തന്നെ ട്രാൻസിസ്റ്ററിന്റെ നീളത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ അത് എന്തായാലും നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഗെയിനിനു ചില അപ്പർ ലിമിറ്റുകളുണ്ട് അതിനാൽ ഈ ഭാഗം വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ പൂർണ്ണതയ്ക്കായി ഒരു MOS ട്രാൻസിസ്റ്റർ സ്മോൾ സിഗ്നൽ മോഡലിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കണ്ടക്റ്റൻസ് ഉൾപ്പെടുത്തണം ഇപ്പോൾ കണക്കുകൂട്ടലുകൾ വളരെ ബുദ്ധിമുട്ടുള്ളതിനാൽ നമ്മൾ ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഉൾപ്പെടുത്തുന്നില്ല കൂടാതെ g m കണക്കുകൂട്ടലിനായും നമ്മൾ ഇത് ഉൾപ്പെടുത്തുന്നില്ല എന്നിരുന്നാലും നമുക്ക് കുറച്ച് അധിക പരിശ്രമം ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയും അതിനാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണക്കുകൂട്ടലുകൾക്കും g m കണക്കുകൂട്ടലുകൾക്കുമായി ഇത് പരാമർശിച്ചില്ലെങ്കിൽ ലാംഡയുടെ എഫെക്ട് ഒഴിവാക്കുക പക്ഷേ ലാംഡ MOS ട്രാൻസിസ്റ്ററിന് ഔട്ട്പുട്ട് കണ്ടക്റ്റൻസ് gds ഉണ്ടാക്കാൻ കാരണമാകും നിങ്ങളുടെ കൈവശമുള്ള ഏത് സർക്യൂട്ടിലും മോസ്ഫെറ്റിന്റെ സ്മോൾ സിഗ്നൽ ചിത്രം ഉൾപ്പെടുത്തേണ്ടതാണ് g m പോലെ g d sഉം ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ആശ്രയിച്ചിരിക്കുന്നു